സർക്യൂട്ടിൽ ഡയോഡുകൾ ഉള്ളപ്പോളുള്ള സർക്യൂട്ട് വിശകലനത്തിന്റെ രണ്ട് ഉദാഹരണങ്ങൾ ഞങ്ങൾ നോക്കും തീർച്ചയായും ഞാൻ വളരെ ലളിതമായ ഒരു സർക്യൂട്ട് എടുക്കും എന്നാൽ കൂടുതൽ സങ്കീർണ്ണമായ സർക്യൂട്ടുകൾക്ക് തത്വങ്ങൾ ഒന്നുതന്നെയാണ് നമുക്ക് ഈ സർക്യൂട്ട് എടുക്കാം എനിക്ക് 5 7 V വോൾട്ടേജ് ഉറവിടമുണ്ട് ഞാൻ അതിനെ VS എന്ന് വിളിക്കാം ഞാൻ ഈ റെസിസ്റ്ററിനെ വിളിക്കും R ഞാൻ 5 KΩ എന്ന് പറയും അതിൽ ഒരു വോൾട്ടേജ് VD ഉള്ള ഒരു ഡയോഡ് D ഉണ്ട് ഈ ഡയോഡിന് 10 15 എ സാച്ചുറേഷൻ കറന്റ് ഉണ്ടെന്ന് ഞാൻ പറയും ഇപ്പോൾ ആദ്യം നമുക്ക് നോൺലീനിയർ സമവാക്യം എഴുതാം അതായത് റെസിസ്റ്ററിലെ വൈദ്യുതധാരയെ തുല്യമാക്കുക R എന്നത് ഡയോഡിലെ നിലവിലെ വോൾട്ടേജിന് തുല്യമാണ് അത് IS ആണ് VD 0 72 V അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് ഇതിന്റെ വലതുവശത്ത് R R എന്നതിലേക്ക് മാറ്റി പകരം നിങ്ങൾക്ക് ഇവിടെ നിലവിലുള്ള ID കണ്ടെത്താനാകും തീർച്ചയായും ഞങ്ങളുടെ താൽപ്പര്യം ഈ രേഖീയമല്ലാത്ത സമവാക്യം സംഖ്യാപരമായി പരിഹരിക്കുന്നതിലല്ല മറിച്ച് അനുയോജ്യമായ ഏകദേശങ്ങൾ ഉപയോഗിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞ ഏകദേശ കണക്ക് ഗണ്യമായ ഫോർവേഡ് കറന്റ് ഉണ്ടെങ്കിൽ ഈ VD കുറച്ച് മൂല്യത്തിലേക്ക് സ്ഥിരപ്പെടും അത് VD ON ആണ് തീർച്ചയായും VD VD ON ID പൂജ്യത്തേക്കാൾ വലുതാണെങ്കിൽ VD ON എന്നതിനേക്കാൾ ചെറുതാണെങ്കിൽ ID പൂജ്യത്തിന് തുല്യമാണ് ഇപ്പോൾ സ്വഭാവം ഈ സോപാധികമായി നൽകിയിരിക്കുന്നതിനാൽ രണ്ട് സാധ്യതകളുണ്ട് നിങ്ങൾ രണ്ടും വിലയിരുത്തേണ്ടതുണ്ട് ഇതാണ് പൊതു തത്വം അതിനാൽ സർക്യൂട്ടിലെ ഏത് ഡയോഡും ഓൺ അവസ്ഥയിലോ ഓഫ് അവസ്ഥയിലോ ആകാം നിങ്ങൾ രണ്ട് കേസുകൾ അനുമാനിക്കണം നിങ്ങൾ രണ്ട് കേസുകളും പരിശോധിച്ച് ഏതാണ് വൈരുദ്ധ്യത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കണം അത് തെറ്റാണ് മറ്റൊന്ന് ശരിയാണ് ഈ സർക്യൂട്ടിന് ഇത് വളരെ എളുപ്പമാണ് എന്നാൽ തത്ത്വം വിശദീകരിക്കാൻ ഞാൻ നിങ്ങളെ കാണിക്കും ആദ്യം ഞാൻ ഒരു ഓൺ ഡയോഡ് അനുമാനിക്കും ഇവിടെയാണ് ഞാൻ ഡയോഡ് ഓണായിരിക്കുമെന്ന് അനുമാനിച്ചത് അതിനാൽ ഡയോഡ് വോൾട്ടേജ് 0 7 V ആണ് കൂടാതെ ഡയോഡ് ഓഫാണെന്ന് നിങ്ങൾ മറ്റൊരു അനുമാനം നടത്തിയാൽ അങ്ങനെയെങ്കിൽ കറന്റ് ത്രൂ ഡയോഡ് പൂജ്യമാണ് എനിക്ക് ഡയോഡിനെ ഒരു ഓപ്പൺ സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം രണ്ട് കേസുകൾ ഞാൻ വിലയിരുത്തട്ടെ ഒന്നാമതായി ഡയോഡ് ഓൺ ആണെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ എനിക്ക് ഇതിലുടനീളം 0 7 V ഉണ്ട് ഇവിടെ 5 7 V ഉണ്ട് അതിനാൽ ഈ റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് 5 V ആണ് അതിനാൽ ഇതിലെ കറന്റ് 1 mA ആണ് ഈ സാഹചര്യത്തിൽ വൈരുദ്ധ്യമൊന്നുമില്ല കാരണം ഡയോഡ് വോൾട്ടേജ് 0 7 V ആണ് ഒരു ഫോർവേഡ് കറന്റ് ഒഴുകുന്നുവെങ്കിൽ ആ അനുമാനത്തിൽ ഞങ്ങൾ ഇത് കണക്കാക്കുകയും ഫോർവേഡ് കറന്റ് 1 mA ആണെന്ന് കണ്ടെത്തി അതിനാൽ നമ്മൾ കണക്കാക്കുന്നത് സ്ഥിരതയുള്ളതാണ് എന്നാൽ ഡയോഡ് ഓഫാണ് ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ് ഇതിലൂടെ കറന്റ് ഒഴുകുന്നില്ല എന്ന മറ്റൊരു അനുമാനത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചതെങ്കിൽ അതിനാൽ ഇതിലുടനീളമുള്ള വോൾട്ടേജ് പൂജ്യമാണ് ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള വോൾട്ടേജ് അതായത് ഡയോഡിലുള്ള വോൾട്ടേജ് 5 7 V ആയിരിക്കും ഇപ്പോൾ ഡയോഡ് വോൾട്ടേജ് 0 7 V ൽ കൂടരുത് എന്ന് ഡയോഡ് സ്വഭാവത്തിൽ നിന്ന് അറിയാം ഞാൻ ഏകദേശ സ്വഭാവമാണ് കണക്കാക്കുന്നത് അതിനാൽ 0 7 V വരെ ഒരു തിരശ്ചീന രേഖയും അതിനുശേഷം ഒരു ലംബ വരയും ഉള്ളതിനാൽ 5 7 V ഡയോഡ് സ്വഭാവത്തിന്റെ ഭാഗമല്ലെന്ന് നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും അതിനാൽ ഒരു വൈരുദ്ധ്യമുണ്ടെന്ന് ഇത് നിങ്ങളോട് പറയുന്നു അതിനാൽ ഇത് തെറ്റായ അനുമാനമാണ് ഇതാണ് ശരിയായത് 5 7 എന്നതിനുപകരം ഈ 5 7 വോൾട്ട് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതേ എക്സസൈസിലൂടെ കടന്നുപോകാം നിങ്ങൾ എവിടെയാണ് ഒരു വൈരുദ്ധ്യത്തിൽ എത്തിച്ചേരുന്നതെന്ന് കാണുക ഇപ്പോൾ ഈ സർക്യൂട്ട് വളരെ ലളിതമാണ് ഈ എക്സസൈസ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എല്ലാ ലോജിക്കൽ ഘട്ടങ്ങളിലൂടെയും കടന്നുപോകുകയും ഓരോ ഘട്ടവും നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം ഡയോഡുകൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് n ഡയോഡുകളുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ 2n സാദ്ധ്യതകളുണ്ട് അതായത് എല്ലാ ഡയോഡുകളും ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യാം നിങ്ങൾ ആ കോമ്പിനേഷനുകളെല്ലാം എടുത്താൽ 2n സാധ്യതകൾ ഉണ്ടാകും തത്വത്തിൽ നിങ്ങൾ ഇവയെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു സർക്യൂട്ടിൽ 5 ഡയോഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ 32 സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ തീർച്ചയായും പലപ്പോഴും നിങ്ങൾക്ക് ചില സാധ്യതകൾ വളരെ വേഗത്തിൽ നിരസിക്കാൻ കഴിയും വിശദമായി വിശകലനം ചെയ്യാതെ തന്നെ വൈരുദ്ധ്യം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും വളരെ കുറച്ച് അനുഭവപരിചയമുള്ള സർക്യൂട്ട് വിശകലനം പോലും ഉള്ള ഈ സർക്യൂട്ടിൽ കറന്റ് ഈ ദിശയിലേക്ക് മാത്രമേ പോകൂ എന്നും ഡയോഡ് ഓണായിരിക്കണമെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ തത്വത്തിൽ പരിശോധിക്കാൻ നിരവധി സാധ്യതകൾ ഉണ്ടെങ്കിലും പ്രായോഗികമായി നിങ്ങൾ അവയിൽ ചിലത് മാത്രം പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ വ്യവസ്ഥാപിത രീതി മനസ്സിലാക്കുക എന്നതാണ് കാര്യം അതിനാൽ നിങ്ങൾ അത് ചെയ്യണമെങ്കിൽ എല്ലാ സാധ്യതകളും വ്യവസ്ഥാപിതമായി കടന്നുപോകാൻ കഴിയണം നിങ്ങൾ എല്ലാ സാധ്യതകളും വ്യവസ്ഥാപിതമായി പരിഗണിക്കുകയും തെറ്റായവ ഇല്ലാതാക്കുകയും വേണം